അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം അതിനാൽ നോഡ് വോൾട്ടേജ് രീതി ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിന്റെ കറന്റ് നിർണ്ണയിക്കുക ഇപ്പോൾ സൂപ്പർ നോഡിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് പിന്നീട് കുറച്ച് ഉദാഹരണങ്ങൾക്ക് ശേഷം സൂപ്പർ മെഷ് കാണും ഇതൊരു നോഡ് വോൾട്ടേജ് അനാലിസിസ് അല്ല മെഷ് അനാലിസിസും ഇവിടെ മെഷ് ഉം നോഡ് പ്രയോഗിക്കുകയും ചെയ്യും അതിനാൽ ഈ സർക്യൂട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ നൽകിയിരിക്കുന്നവയുടെ കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ കറന്റ് കണ്ടെത്താൻ നോഡ് വോൾട്ടേജ് രീതി ഉപയോഗിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു കറന്റ് സോഴ്സ്ആണ് 4 ആമ്പിയർ കറന്റ് സോഴ്സ് ഇവിടെയുണ്ട് മറ്റൊരു 1 ആമ്പിയർ കറന്റ് സോഴ്സ് ഇവിടെയുണ്ട് ഒപ്പം എല്ലാ റെസിസ്റ്റീവ് സർക്യൂട്ടും r റഫറൻസ് നോഡ് സാധ്യത 0 അതിനാൽ നോഡ് 1 ഉണ്ടായിരിക്കുക നോഡ്2 ഉണ്ടായിരിക്കുക കൂടാതെ നോഡ് 3 ഉം v 1 v 2 v 3 വോൾട്ടേജുകളും ഉണ്ട് പക്ഷേ നോഡ് വോൾട്ടേജ് രീതി ഉപയോഗിച്ച് i1 i 2 i3 r i4 എന്നിങ്ങനെയുള്ള കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആദ്യം നോഡ് 1 ൽ r KCL പ്രയോഗിക്കുക അതിനാൽ ആദ്യം നോഡ് 1 ൽ കെസിഎൽ പ്രയോഗിക്കുക അതിനാൽ നോഡ് 1 ൽ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ i1 കറന്റും i2 കറന്റും 1 ആമ്പിയർ കറന്റും എല്ലാം നോഡ് ഉപേക്ഷിക്കുന്നു അതിനാൽ r ഇക്വഷൻ r i1 i 2 1 0 ന് തുല്യമായിരിക്കണം i1 എന്താണെന്ന് കാണുകയാണെങ്കിൽ i1 ഇതുപോലെ പോകുന്നു അതിനാൽ i1 v1 v3 by 0 25 ആകും അതിനാൽ i1 v1 v3 by 0 25 കാരണം ഇത് 2 25 ആണ് ഇപ്പോൾ സമാനമായി i 2 i 2 ഇവിടെയുണ്ട് അതിനാൽ i 2 v1 v2 by 1 കാരണം ഇത് 1 Ω ആണ് ഇപ്പോൾ സമാനമായി കെസിഎൽ നോഡ് 2 ൽ പ്രയോഗിച്ചാൽ ഈ 4 ആമ്പിയർ കറന്റ് നോഡ് 2 ലേക്ക് പ്രവേശിക്കുന്നു അതിനർത്ഥം ഇത് i 2 ഈ 4 കാരണം കറന്റ് സോഴ്സ് ഇത് ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആയ i 2 4 i3 ആണ് അതിനാൽ i 2 എക്സ്പ്രഷൻ ഇവിടെ നൽകിയിരിക്കുന്നു i3 r v2 ന് 0 വീണ്ടും v2 0 ഞാൻ എഴുതുന്നില്ല കാരണം റെസിസ്റ്റൻസ് 0 5 ആയതിനാൽ r i3 അതിനാൽ അടുത്തത് ഇവിടെ പ്രയോഗിക്കുന്നത് നോഡ് 3 ലെ കെസിഎൽ ആണ് അതിനാൽ ഈ നിലവിലെ 4 ആമ്പിയർ കറന്റ് വിടുകയും നിലവിലെ r i1 കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു കാരണം ഇത് നോഡിലേക്ക് r i1 പ്രവേശിക്കുന്നു അതിനാൽ ഇത് r i1 ഉം മറ്റ് 2 കറന്റുകളും വിടുന്നു അതിനാൽ ഇത് 4 r i4 4 i4 i1 i 2 i3 എല്ലാം i4 r ലേക്ക് പോകുന്നു i i ഇവിടെ ഞാൻ എഴുതുന്നു i4 ഇത് v3 0 5 കൊണ്ട് ഹരിക്കുന്നു കാരണം റെസിസ്റ്റൻസ് 0 അതിനാൽ ഇതെല്ലാം നോഡ് 1 ൽ എഴുതിയിരിക്കുന്നു അതുപോലെ നോഡ് 2 ൽ ഞാൻ ഇത് എഴുതി അതിനാൽ നോഡ് 3 ലും ഞാൻ സമാനമായി പറഞ്ഞു ഞാൻ ഇത് എഴുതി ഇതെല്ലാം ഇവിടെ ഇട്ടു ഇത് ഇട്ട് ലളിതമാക്കുകയും ചെയ്താൽ 5 v1 v2 4 v3 1 ഇത് ഇക്വഷൻ 1 ഇത് നോഡ് 2 ലും ഞാൻ എഴുതി ഇപ്പോൾ ഇവിടെ പകരമായി v1 3 v2 4 ലഭിക്കും ഇത് ഇക്വഷൻ 2 ആണ് നോഡ് 3 ലും i1 4 i4 അതിനാൽ എല്ലാ i1 i4 എന്നിവയ്ക്ക് പകരമായി നമുക്ക് 2 v1 3 v3 2 ലഭിക്കും ഇപ്പോൾ 1 2 3 എന്ന സമവാക്യം പരിഹരിക്കാനുള്ള വഴിക്ക് v1 7 ബൈ 6 വോൾട്ട് v2 17 ബൈ 18 വോൾട്ട് v3 13 ബൈ 9 വോൾട്ട് ലഭിക്കും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിലവിലെ i1 v1 v3 0 25 കൊണ്ട് കണക്കാക്കുക ഇത് 10 ബൈ 9 ആമ്പിയർ ആണ് i 2 v1 v2 ന് 1 ന് വരുന്നു 19 by 9 ആമ്പിയർ i3 2 v2 അതിനാൽ ഇത് 2 മുതൽ r 7 വരെ 17 മുതൽ 18 വരെ 18 ആയി വരുന്നു അതിനാൽ 17 മുതൽ 9 ആമ്പിയർ വരെയും i4 2 v3 അതിനാൽ 2 മുതൽ 13 വരെ 9 വരെയും 26 മുതൽ 9 ആമ്പിയർ വരെയും അടുത്തത് മറ്റൊരു ഉദാഹരണമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ വോൾട്ടേജുകൾ v1 v2 v3 എന്നിവ ഇവിടെ നിർണ്ണയിക്കുക അതിനാൽ ഇതെല്ലാം v1 v2 v3 എന്നിവ കണ്ടെത്തുക എന്നതാണ് അതിനാൽ ഇത് r നോഡ് 1 ആണെന്ന് കേൾക്കുക ഈ വോൾട്ടേജ് v1 ഉം ഇത് r നോഡ് 2 വോൾട്ടേജ് v2 ഉം ആണ് ഇത് r നോഡ് 3 വോൾട്ടേജ് v3 ഉം വോൾട്ട് ഈ ഒരു വോൾട്ടേജ് v ഇവിടെയുണ്ട് v യഥാർത്ഥത്തിൽ 3 ഇൻ ടു i3 Ω നിയമത്തിൽ നിന്ന് i3 ലേക്ക് കാരണം റെസിസ്റ്റൻസ് 3 Ω ആണ് ഈ വോൾട്ടേജ് v ആണ് ഈ വോൾട്ടേജ് v ഉം ഈ വോൾട്ട് ഇത് r റഫറൻസ് നോഡും ആയതിനാൽ ഇത് ഈ ഗ്രൌണ്ട് r റഫറൻസ് ആണ് പൊട്ടൻഷ്യൽ 0 ആണ് അതിനാൽ v1 യഥാർത്ഥത്തിൽ v ആണ് അതിനാൽ ഇത് r v1 ആണ് ഈ വോൾട്ടേജ് നൽകിയിരിക്കുന്നു v അതിനാൽ അടിസ്ഥാനപരമായി v1 കൂടാതെ 3 i3 v അതിനാൽ v1 v ആദ്യം ഇത് മനസ്സിലാക്കണം അതിനാൽ v1 v 2 r എന്നിവയെ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഈ v1 നെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് കറന്റ് ഈ ദിശയിലേക്ക് ഒഴുകുന്നു v 4 മറ്റൊരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് അവിടെ കറന്റ് ഇവിടെ v 3 ആണ് രണ്ടാമത്തെ കാര്യം ഇവിടെ എലെക്ട്രിക്കൽ എലമെന്റ് ഒന്നുമില്ല അതിനാൽ അടിസ്ഥാനപരമായി ഇവ നോഡ് 3 ആയ ഒരൊറ്റ നോഡാണ് ഒന്നുകിൽ ഇത് നോഡ് 3 ആണ് കാരണം ഇത് ഒരു സാധാരണ കാര്യമാണ് അതിനർത്ഥം ഈ 4 Ω തുടർന്ന് ഈ ഡിപെൻഡന്റ് r ആ കറന്റ് സോഴ്സ്നെ വിളിക്കുന്നു ഇത് 2 Ω എല്ലാം യഥാർത്ഥത്തിൽ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അവ നോഡ് 3 ലേക്ക് റഫറൻസ് പോയിന്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ചെയ്യേണ്ടത് ഇതാണ് ഇത് നിലവിലെ i1 ആണ് ഇത് നിലവിലെ i 2 ആണ് ഇത് നിലവിലെ i3 ആണ് ഇത് i4 ആണ് ഇത് നിലവിലെ i5 ഉം ഇത് നിലവിലെ i6 ഉം ആണ് അതിനാൽ ഈ സർക്യൂട്ട് പരിഹരിക്കേണ്ടതുണ്ട് R ന്റെ എക്സ്പ്രഷനെ നമ്മൾ i1 എന്ന് വിളിക്കുന്നതിനെ r എന്ന് വിളിക്കുക എന്നതാണ് ഇപ്പോൾ ആദ്യം അതിനാൽ ഇത് ഞാൻ സൂചിപ്പിച്ചതെന്തും അറിയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ v1 യഥാർത്ഥത്തിൽ ഇത് v v1 v അതിനാൽ ഇപ്പോൾ ഈ സർക്യൂട്ട് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യം i1 നേടണം KCL പ്രയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം i1 നേടുക അതേ തത്ത്വചിന്ത അതിനാൽ ഇത് ഒരു ആണ് ഇത് r ആണ് ഇതിനെ r ഗ്രൌണ്ട് എന്ന് വിളിക്കുന്നത് അതിനാൽ കെസിഎലിനെ വിളിക്കുന്ന ക്ലോക്ക് ദിശയിൽ r പ്രയോഗിക്കുക അതിനാൽ ഞാൻ ഇവിടെ എഴുതിയാൽ അത് ഇതായിരിക്കും 12 അപ്പോൾ അത് 4 i1 ആയിരിക്കും ഞാൻ പൊളാരിറ്റി ഇടുന്നില്ല ഇത് റെസിസ്റ്റർ 4 i1 ആണ് തുടർന്ന് ടെർമിനലിനെ കണ്ടുമുട്ടുന്നത് ആദ്യം ഞാൻ നിരവധി തവണ പറഞ്ഞു അതിനാൽ v1 തുല്യ 0 ആണ് അതിനർത്ഥം ഇവിടെ ഞാൻ മുകളിൽ ഇടുന്നത് r i1 അത് 12 v1 by 4 എന്നാൽ v1 v1 v അതിനർത്ഥം അതായത് എന്റെ i1 12 v 4 അതിനാൽ കെവിഎൽ എടുക്കുക 12 4 i1 തുടർന്ന് v1 0 പക്ഷേ v1 v ഇടുക കാരണം മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു v1 v കാരണം ഇത് v ആണ് ഇത് v1 അതിനാൽ ഇത് 12 v 4 ആണ് r i1 ഇത് ആദ്യത്തേതാണ് ഇപ്പോൾ നോഡ് 1 നോഡ് 2 നോഡ് 3 എന്നിവയിൽ ഇത് v യുടെ അടിസ്ഥാനത്തിൽ ഒരു ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് അതിനാൽ യാന്ത്രികമായി r പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും ഉദാഹരണത്തിന് i6 r v3 ആയിരിക്കും അതിനാൽ i6 v3 by 2 ആയിരിക്കും ഇത് എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നത് കാരണം ഈ 2 Ω റെസിസ്റ്റർ റഫറൻസ് ഇതാണ് ഗ്രൌണ്ട് റഫറൻസ് സാധ്യത 0 v3 by 2 അതായത് r i6 അതുപോലെ തന്നെ r i5 എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക അതിനാൽ i5 ഇത് ഒരു സാധാരണ നോഡാണ് അതിനാൽ r i5 ഇവിടെ i5 ആക്കുന്നത് v3 by 4 ആയിരിക്കും കാരണം ഇത് r 4 Ω റെസിസ്റ്റൻസ് ഉണ്ട് അത് r i5 v3 4 ആയിരിക്കും കൂടാതെ ഇത് പ്രവേശിക്കുന്ന ഈ v 3 കറന്റ് KCL പ്രയോഗിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ v 4 ൽ നിന്നുള്ള ഈ കറന്റ് ഡിപെൻഡന്റ് സോഴ്സ് വിടുന്നു അതുപോലെ തന്നെ i4 കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ v2 by 6 ആണ് കാരണം 6 Ω റെസിസ്റ്റൻസ് ഇവിടെയുണ്ട് അതിനാൽ i3 കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ സമാനമായി ഇത് v2 ബൈ 4 ആയിരിക്കും i3 യഥാർത്ഥത്തിൽ ഇത് r1 ന്റെ v1 ആണ് അത് ഒന്നുമല്ല പക്ഷേ v 3 അത് r i3 ആണ് കാരണം ഇത് r i3 ആയതിനാൽ v3 v1 r v അതിനാൽ അതുപോലെ തന്നെ ri 2 അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നോഡ് 1 മുതൽ നോഡ് 3 ലേക്ക് ഒഴുകുന്ന i 2 കണ്ടാൽ ഇത് r i 2 ആണ് ഇത് യഥാർത്ഥത്തിൽ v1 v3 12 ആയിരിക്കും കാരണം ഇത് 12 Ω റെസിസ്റ്ററാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം i1 i 2 i3 i4 i5 i6 ഞാൻ പറഞ്ഞതും ഇപ്പോൾ പ്രയോഗിക്കുന്നതും r KCL ഓർമ്മിക്കുക ഈ v 3 യഥാർത്ഥത്തിൽ ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആണ് അതിനാൽ ഈ കറന്റ് ഇവിടെ പ്രവേശിക്കുന്നു ഇത് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ കറന്റ് യഥാർത്ഥത്തിൽ ഈ ടെർമിനലിൽ നിന്ന് പുറത്തുപോകുന്നു കാരണം ഡിറക്ഷൻ ഈ വഴിയും ഈ ഡിറക്ഷൻ ഈ v 3 മുകളിലുമാണ് ഇപ്പോൾ അടുത്തത് r ലേക്ക് വരിക അതിനാൽ നോഡ് 1 ൽ പ്രയോഗിക്കുമ്പോൾ i1 i 2 i3 ലഭിക്കും i1 തുല്യമാണ് i 2 അതിനാൽ i1 ഉം v1 v ഉം ഞാൻ പറഞ്ഞു v1 v3 by 12 v1 0 3 0 വീണ്ടും എഴുതേണ്ടതില്ല അതിനാൽ ശ്രദ്ധിക്കുക v1 v അതിനാൽ ഈ ഇക്വഷനിൽ v1 v v1 ഇടുക അത് ലളിതമാക്കുക 8 v v3 36 ഇത് ഇക്വഷൻ 1 ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ നോഡ് 2 ൽ ഞാൻ നേരിട്ട് നോഡ് 2 ൽ എഴുതുന്നു v3 v2 ന് 6 v 4 അതായത് 6 ന് v2 അതായത് നോഡ് 2 ൽ ഇത് യഥാർത്ഥത്തിൽ നോഡ് 2 ആണ് അതിനാൽ ഇതൊരു സാധാരണ നോഡാണെങ്കിൽ ഇത് നോഡ് ആണ് കാരണം ഇത് ഒരു സാധാരണ നോഡാണ് അതായത് ഈ വോൾട്ടേജ് v3 ഇതും 3 ആണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി വോൾട്ടേജ് v3 ആണ് അതിനാൽ ഈ ബ്രാഞ്ചിനുള്ളതാണ് കറന്റ് എന്ന് പറഞ്ഞാൽ നോഡ് 3 ൽ നിന്ന് നോഡ് 2 ലേക്ക് കറന്റ് ഒഴുകുന്നുവെങ്കിൽ അത് r ആയിരിക്കും ഈ കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുകയും മറ്റ് രണ്ട് നോഡ് 2 ൽ പോകുകയും ചെയ്യുന്നു അതിനാൽ ഇത് v3 v2 ബൈ 6 ആയിരിക്കും ഈ കറന്റ് പ്രവേശിക്കുന്നു കാരണം ഇവിടെ നിന്ന് കറന്റ് ഇതിലേക്ക് ഒഴുകുന്നു അതിനാൽ ഏതെങ്കിലും കറന്റ് എഴുതുന്നതിനുപകരം അത് v3 v2 by 6 ഈ കറന്റ് v 4 വിടുകയാണ് അതിനാൽ ഇത് v 4 ഉം r ഈ v2 ഉം 6 ഉം v2 ഉം 6 ഉം ആണ് അതിനാൽ ഈ കാര്യം ഞാൻ അവിടെ എഴുതുന്നു അതുകൊണ്ടാണ് ഇത് v3 v2 by 6 v 4 v2 by 6 എന്ന് എഴുതുന്നത് അതിനാൽ 3 v ലളിതമാക്കുമ്പോൾ v1 r ഉം v1 v ഉം ഇടുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ v 4 ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ലളിതവൽക്കരണത്തിന് 3 v 4 v2 2 v3 0 ലഭിക്കും അതുപോലെ നോഡ് 3 ൽ ഇത് r നോഡ് 3 ആണ് അതിനാൽ ഈ 3 കാര്യങ്ങളും സമാന്തരമാണ് കൂടാതെ മറ്റൊരു കറന്റ് i 2 ഉം നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ 1 2 3 4 5 വ്യത്യസ്ത കറന്റുകൾ ഒന്നുകിൽ വിടുന്നു അല്ലെങ്കിൽ ഈ i 2 കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഈ നോഡിൽ നിന്ന് i6 കറന്റ് v 3 ഡിപെൻഡന്റ് സോഴ്സ് നോഡിലേക്ക് പ്രവേശിക്കുന്നു i5 കറന്റ് ഈ നോഡിൽ നിന്ന് വിടുന്നു മറ്റൊരു കറന്റ് v3 v2 by 6 എടുത്താൽ ഈ ദിശയിൽ നോഡ് വിടുക അതിനർത്ഥം r മനസ്സിലാക്കലിനായി മാത്രം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഇത് നോഡ് 3 ആണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു സാധാരണ നോഡാണ് ഇത് 3 ഇതാണ് ഇത് എന്തായാലും ഇത് ഒരു സാധാരണ നോഡാണ് അതിനാൽ ഈ i 2 കറന്റ് ഈ കറന്റിലേക്ക് പ്രവേശിക്കുന്നു i 2 v1 v3 by 12 ഈ കറന്റ് പ്രവേശിക്കുന്നു മറ്റൊരു കറന്റ് ഈ കറന്റ് അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും മറ്റൊരു കറന്റ് ഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ഉം പ്രവേശിക്കുന്ന് അതിനാൽ v 3 ഈ കറന്റ് പ്രവേശിക്കുകയും മറ്റ് കറന്റുകൾ വിടുകയും ചെയ്യുന്നു ഈ 2 കറന്റ് മറ്റ് കറന്റിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് വിടുന്നു i5 മറ്റൊന്ന് i6 ആണ് ഇത് ഒരു സാധാരണ നോഡാണ് അതിനർത്ഥം ഈ നോഡ് വിടുന്നു മറ്റൊരു കറന്റും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ v3 v2 by 6 ആയിരിക്കും i 2 v 3 i5 i6 v3 v2 6 ആയിരിക്കും i5 i6 i 2 എന്നിവ എല്ലാം v യുടെ അടിസ്ഥാനത്തിൽ ഇടുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതിന് ശേഷം നിരവധി ഉദാഹരണങ്ങൾ ഞാൻ വീണ്ടും എഴുതിയില്ല അതിനാൽ ഇത് നോഡ് 3 ൽ എഴുതിയത് ഇവയാണ് ഇക്വഷൻസ് അതിനാൽ ലളിതവൽക്കരിക്കുന്നതിന് 5 v 2 v2 12 v3 0 ലഭിക്കും അതിനാൽ 1 2 3 എന്നീ ഇക്വഷനുകൾ പരിഹരിക്കുക v ന് v v1 4 686 വോൾട്ട് v2 2 769 വോൾട്ട് v3 1 491 വോൾട്ട് എന്നിവ ലഭിക്കും അടുത്തത് ഈ പ്രശ്നമാണ് അതിനാൽ നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ നേരിട്ട് എന്തെങ്കിലും എഴുതുന്നു അതിനാൽ ഇതിന്റെ v1 v2 v3 എന്നിവ കണ്ടെത്തേണ്ട ഈ പ്രശ്നത്തിന് ഇത് v1 ഇത് v2 ഇത് v3 എന്നിവയാണ് അതിനാൽ v3 നേരിട്ട് v3 10 വോൾട്ട് നേരിട്ട് ലഭിക്കും കാരണം ആ വോൾട്ടേജ് സോഴ്സ് ഇവിടെ വിളിക്കുന്ന ഒരേയൊരു r ഇതാണ് എന്നാൽ ഇവിടെ നേരിട്ട് കാര്യങ്ങൾ ലഭിക്കില്ല കാരണം ഇവിടെ ഒരു Ω റെസിസ്റ്റന്സ് ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ r v1 എന്താണെന്ന് കണ്ടെത്തുക അതിനാൽ ഇതൊരു സാധാരണ നോഡാണ് അതായത് ഈ i 2 കറന്റ് അതിനർത്ഥം നോഡ് 1 ൽ നോഡ് 1 എടുക്കുകയാണെങ്കിൽ ഇത് എന്റെ നോഡ് 1 ആണെന്ന് കരുതുകയാണെങ്കിൽ ഇത് ഇതുപോലെയാകും അതിനാൽ ഈ i1 കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് i 2 കറന്റ് ഇതുപോലെ പുറത്തുവിടുന്നു ഇത് KCL ഇത് ri 2 കറന്റ് ആണെന്ന് വിശദീകരിക്കുന്നു ഇത് നോഡ് വിടുകയാണ് തുടർന്ന് ഇത് ഒരു സാധാരണ നോഡാണ് തുടർന്ന് 12 ആമ്പിയർ കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു കാരണം ദിശ ഈ വഴി നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ ഇത് 12 ആമ്പിയർ കറന്റാണ് മറ്റൊരു കാര്യം ix കറന്റ് ഈ നോഡ് വിടുന്നു എന്നതാണ് അതിനാൽ ഇത് നോഡ് വിടുന്ന r ix കറന്റാണ് അതിനാൽ 1 2 3 4 നാല് ശാഖകളുണ്ടെന്ന് പരിശോധിക്കുക അതിനാൽ 2 കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു അതായത് i1 r 12 2 കറന്റുകൾ വിടുന്നു അത് r i 2 r ix അതിനാൽ ഈ നോഡിനായി ഇത് r KCL ആണ് നോഡ് 2 ലേക്ക് വന്നാൽ സമാനമായി വോൾട്ടേജും പിന്നീട് വരും തുടർന്ന് i 2 i3 8 0 കാരണം എല്ലാ കറന്റുകളും നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ i 2 i3 8 അതിനാൽ എല്ലാ കറന്റുകളും നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ i3 ഇപ്പോൾ 3 ന് 2 ന് v3 v2 ന് തുല്യമായ i3 അറിയാം അതിനാൽ ആദ്യം i 2 എടുത്താൽ ഈ കറന്റ് 1 ന് v1 v2 ആയിരിക്കും കാരണം ഒരു Ω റെസിസ്റ്റന്സ് ഇവിടെയുണ്ട് അതുപോലെ ആണെങ്കിൽ r i3 i3 v3 v2 2 എന്ന് വിളിക്കുന്ന r എടുക്കുക കാരണം ഇത് 2 Ω റെസിസ്റ്റന്സ് ഉണ്ട് മറ്റൊരു കാര്യം ix ആണ് മറ്റൊരു കാര്യം ix ഇത് ഒരു സാധാരണ നോഡ് v1 ആണ് ഇതും സാധാരണ നോഡ് v3 ആണ് അതിനാൽ ix യഥാർത്ഥത്തിൽ v1 v3 നെ ഈ 1 Ω റെസിസ്റ്റൻസാൽ ഹരിക്കുന്നു അതായത് r ix ഇപ്പോൾ എല്ലാ ix ഉം ലഭിച്ചു ഇപ്പോൾ ചോദ്യം i1 എങ്ങനെ i1 ലഭിക്കും അതിനാൽ ഇവിടെ 1 Ω റെസിസ്റ്റൻസ് ഉള്ളതിനാൽ ഇത് എങ്ങനെ ചെയ്യാം ആദ്യം r നോഡ് 1 നോക്കുക അതിനാൽ ഇവിടെ r നോക്കിയാൽ ഇത് ചെയ്യേണ്ടത് r വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജ് v1 ആണ് ഇത് എന്റെ വോൾട്ടേജ് v1 ആണെന്ന് കരുതുക കാരണം ഈ r റഫറൻസ് നോഡിനെ സംബന്ധിച്ച് വോൾട്ടേജ് v1 എന്നാൽ ഇത് 1 Ω ആണ് ഇത് എന്റെ 10 വോൾട്ടും r ന്റെ ദിശയുമാണ് കറന്റിനെ വിളിക്കുന്നത് ഇതിനെ i1 എന്ന് പറയുന്നു അതിനാൽ ഞാൻ ഇതുപോലെ നീങ്ങിയാൽ അത് i1 ആയി 1 ആയിരിക്കും കാരണം ഇത് ഒന്നാണ് Ω ഈ ടെർമിനൽ v1 10 0 അതായത് i1 10 v1 ആയിരിക്കും അതായത് i1 10 v1 1 കൊണ്ട് ഹരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 10 v1 i1 12 എഴുതുന്നത് ഈ എല്ലാ സമവാക്യങ്ങളും ഞാൻ പറഞ്ഞ KCL ആണ് അതിനാൽ 1 ന് 10 v1 അതിനാൽ ഈ രീതിയിൽ ഇത് നിർമ്മിക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ കണക്കാക്കണമെന്ന് r എങ്ങനെ വിളിക്കണം എന്ന് മനസിലാക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഏകപക്ഷീയമായി അറിയുക അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കരുത് ഇതുപോലൊന്ന് വരുന്നതിനേക്കാൾ കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് കാര്യങ്ങൾ മനസിലാക്കാൻ ശ്രമിക്കണം ഇത് ഒരു പ്രശ്നമാകുമെന്ന് മനസിലാക്കുന്നില്ല നന്നായി മനസിലാക്കുക തുടർന്ന് അത് ചെയ്യണം തുടർന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും 100 ശതമാനം കൃത്യത പരിഹരിക്കാൻ കഴിയും അതിനാൽ എല്ലാ ഇക്വഷനുകളും ഞാൻ പറഞ്ഞതെന്തും ഇത് നോഡ് 1 ലാണ് അതിനാൽ ഇത് നോഡ് 1 ലാണ് ഈ ഇക്വഷൻ ലഭിക്കുക ഒടുവിൽ ഇത് 3 v1 v2 32 വരുന്നു അതുപോലെ നോഡ് 2 ൽ ഇൻകമിംഗ് എല്ലാം വരുന്ന എല്ലാ ഇക്വഷനുകളും ഞാൻ പറഞ്ഞു ഇത് 1 8 v3 v2 ന് v1 b 2 ഉം എഴുതുക ഈ സമക്യവാങ്ങളിലുള്ളവയെ മാറ്റിസ്ഥാപിക്കുക i അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാത്തത് ഞാൻ വിശദീകരിച്ച പ്രശ്നത്തെക്കുറിച്ച് കെസിഎൽ ഇതെല്ലാം ഇവിടെയുണ്ട് അതിനാൽ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവസാനമായി ഇത് 2 v1 3 v2 26 ആയിരിക്കും 1 2 എന്നീ ഇക്വഷനുകൾ പരിഹരിക്കുക അതിനാൽ v1 17 428 വോൾട്ട് ലഭിക്കും v2 20 285 വോൾട്ട് ആയിരിക്കും നിലവിലുള്ളത് ix v1 v3 ന് 1 ന് കണക്കാക്കുന്നു ഇത് 7 428 ആമ്പിയർ i 2 ആയിരിക്കും 1 1 ന് v1 v2 ലഭിക്കും അതിനാൽ അത് 2 പോയിന്റ് എപ്പോൾ ചിഹ്നം വരുന്നു എന്നതിനർത്ഥം കറന്റിന്റെ ദിശ വിപരീതമായിരിക്കും I3 v3 v2 ന് 2 5 142 ആമ്പിയർ അതിനാൽ v3 10 വോൾട്ട് എന്നാൽ ചില റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അത് v1 10 എഴുതരുത് ഞാൻ കെവിഎൽ പ്രയോഗിക്കുന്ന രീതി പ്രയോഗിക്കരുത് തുടർന്ന് v1 എന്താണെന്ന് കണ്ടെത്തുക അതിനാൽ ഈ രീതിയിൽ എഴുതേണ്ട i1 എന്തായിരിക്കണം അതിനാൽ r നേരിട്ട് എഴുതരുത് അപ്പോൾ ഒരു തെറ്റ് ഉണ്ടാകും അടുത്തത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ നോഡ് അനാലിസിസ് ഉപയോഗിച്ച് v2 നിർണ്ണയിക്കുക ഇവിടെയും ഈ ഇക്വഷനുകൾ ഞാൻ നേരിട്ട് എഴുതുന്നു പക്ഷേ ഇത് ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ആണ് അതിനാൽ ഇവിടെ ഇത് r റഫറൻസ് നോഡാണ് ഇത് നോഡ് 1 ആണ് ഇത് വോൾട്ടേജ് v1 ഇതാണ് വോൾട്ടേജ് v2 ഇത് വോൾട്ടേജ് v3 1 2 ആമ്പിയർ സോഴ്സ് ബന്ധിപ്പിച്ചിരിക്കുന്നു അടിസ്ഥാനപരമായി ഇത് ഒരു സാധാരണ നോഡാണ് അതിനാൽ ഇത് r നോഡ് 1 ആണ് ഒരു കറന്റ് മുമ്പ് വിശദീകരിച്ച രീതിയിൽ കെസിഎൽ പോലെ ഇടുന്നു ഇത് i1 ആണ് ഈ കറന്റും ഇത് ഉപേക്ഷിക്കുന്നു i 2 മറ്റൊരു കറന്റ് ഉണ്ട് ഇത് ഒരു സാധാരണ നോഡാണ് അതിനാൽ മറ്റൊരു കറന്റും ഉണ്ട് ഈ കറന്റ് ഈ കറന്റ് ഉപേക്ഷിക്കുന്നു i3 ഈ 2 ആമ്പിയർ കറന്റ് യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നു അതിനാൽ ഈ 2 ആമ്പിയർ കറന്റ് അങ്ങനെ പ്രവേശിക്കുന്നു അവിടെ നേരത്തെ 1 2 3 4 ശാഖകൾ ഉണ്ട് അതിനാൽ ഒരു കറന്റ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നുവെന്നാണ് ഇതിനർത്ഥം അതിനാൽ i1 i 2 i3 2 ഈ ഇക്വഷൻ ഇപ്പോൾ എളുപ്പത്തിൽ എഴുതാൻ കഴിയും i1 r i1 r v1 v2 by 8 കാരണം ഇത് 8 is ആണ് അതുപോലെ തന്നെ i 2 r v1 ഈ റഫറൻസ് നോഡ് വോൾട്ടേജ് 0 v 0 ആണ് 0 ഇത് ri 2 അതായത് ഈ 20 Ω റെസിസ്റ്റൻസ് ഉള്ളതിനാൽ ഇത് നേരിട്ട് v1 20 ആകും അടുത്തത് r i3 ഇതൊരു സാധാരണ നോഡാണ് അതിനാൽ ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ v1 ആണ് ഇത് ഒരു സാധാരണ നോഡും കൂടിയാണ് അതിനാൽ ഈ വോൾട്ടേജ് v3 ആണ് അതിനാൽ ഇവിടെ ഇത് നിർമ്മിക്കുന്നത് r i3 v1 v3 by 12 അതായത് i1 i 2 i3 എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ v1 v2 v3 എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇക്വഷനിലേക് പ്രവേശിക്കും അതിനാൽ ഇത് പിന്നീട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനുള്ള പരിഹാരം പിന്നീട് നൽകും എന്നാൽ ആദ്യം ഇത് മനസിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അതിനാൽ നോഡ് 1 നായി ഇത് ഇപ്പോൾ നോഡ് 2 നായി ചെയ്തു അതിനാൽ ഇത് നോഡ് 2 ഉം r കെസിഎൽ പ്രയോഗിക്കുന്നു അതിനാൽ നേരിട്ട് എന്തുചെയ്യാൻ കഴിയും എന്നതാണ് ഇവിടെ i1 i 2 ഞാൻ നിർമ്മിച്ചിട്ടില്ലാത്ത മറ്റ് ശാഖകൾ v1 v2 v3 ഞാൻ കാണിച്ചിട്ടില്ലാത്ത മറ്റ് ശാഖകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഇവിടെയുള്ള കറന്റ് ദിശ ഇതെല്ലാം കാണിക്കുന്നു ഉദാഹരണത്തിന് r പ്രയോഗിച്ചാൽ ഇത് നോഡ് 2 ആണെന്ന് കരുതുക ഇത് r നോഡ് 2 ആണെന്ന് കരുതുക ഉദാഹരണത്തിന് r പ്രയോഗിച്ചാൽ ഇത് നോഡ് 2 ആണെന്ന് കരുതുക ഇത് r നോഡ് 2 ആണെന്ന് കരുതുക അപ്പോൾ ഈ കറന്റിലേക്ക് പ്രവേശിക്കുന്ന ഈ നിലവിലെ i1 v1 ആയിരിക്കും ഈ കറന്റ് ആയിരിക്കും v1 v2 8 കൊണ്ട് ഹരിക്കുന്നു ഈ കറന്റ് പ്രവേശിക്കുമ്പോൾ നോഡ് 2 ൽ മറ്റ് 2 കറന്റ് പോകുന്നു അതിനർത്ഥം ഇത് പ്രവേശിക്കുന്നു മറ്റൊരു കറന്റ് ഈ 2 2 r ഡാറ്റം നോഡ് റഫറൻസ് നോഡ് റഫറൻസ് വോൾട്ടേജ് 0 ആണ് അതായത് ഈ 2 v2 by 6 ആകും കാരണം ഇത് 6 Ω ആണ് അതുപോലെ ഈ ദിശയിൽ എടുത്തതിനാൽ മറ്റൊരു കറന്റും പോകുന്നു അതിനാൽ മറ്റൊരു കറന്റ് അത് വിടുകയാണ് അത് v2 v3 4 കൊണ്ട് ഹരിക്കുന്നു അതിനർത്ഥം 8 ന് v1 v2 കറന്റ് ഉണ്ട് v2 ന് 6 v2 v3 ന് ശേഷം 4 കാണിക്കുന്നു എന്നാൽ നോഡ് 2 ൽ സമാനമായി നോഡ് 3 ൽ വിളിക്കുന്ന r ഇതാണ് അതിനാൽ ഇവിടെയും ഇത് നോഡ് 3 ൽ ഇത് ഒരു സാധാരണ നോഡാണ് ഇത് എന്റെ നോഡ് 3 ആണെങ്കിൽ ഇത് സാധാരണ നോഡാണ് അതായത് ഈ 2 ആമ്പിയർ കറന്റ് ഉണ്ട് അതിനാൽ ഈ 2 ആമ്പിയർ കറന്റ് ഈ നോഡിനെ അവിടെ ഉപേക്ഷിക്കുന്നു മറ്റൊരു കാര്യം i3 കറന്റ് ഇത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിനാൽ ഈ i3 കറന്റ് യഥാർത്ഥത്തിൽ നോഡിലേക്ക് പ്രവേശിക്കുന്നു i3 v1 v3 v1 v3 by 12 ഈ 2 കറന്റുകൾ പ്രവേശിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊരു കറന്റ് r v2 v3 on 4 നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ ഇത് r ആണ് r നോഡ് 3 ഉം ഈ കറന്റ് v2 v3 ബൈ 4 ഉം ആണ് ഈ കറന്റ് നോഡിലേക്ക് പ്രവേശിക്കുന്നു പക്ഷേ ഇവിടെ മറ്റൊരു കറന്റ് ദിശയാണ് ഈ രീതിയിൽ എടുത്തതാണ് അതിനാൽ റഫറൻസ് വോൾട്ടേജ് 0 ആണ് ഈ ടെർമിനലിൽ നിന്ന് പുറത്തുപോകുന്ന മറ്റൊരു കറന്റ് അതിനാൽ ഇത് 10 കൊണ്ട് v3 ആയിരിക്കും അതിനർത്ഥം ഞാൻ പറഞ്ഞതുപോലെ i3 അതായത് ഈ കറന്റ് പ്രവേശിക്കുന്നു അതിനാൽ 12 ന് r v1 v3 ആയ i3 മറ്റൊരു കറന്റ് പ്രവേശിക്കുന്നു അത് v2 v3 ന് 4 ന് ഈ 2 കറന്റ് പ്രവേശിക്കുന്നത് 2 v3 ന് 10 ന് ഈ രീതിയിൽ ഇക്വഷൻ എഴുതാൻ കഴിയും ഈ രീതിയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ അടുത്തതായി നോഡ് 1 ൽ എഴുതുകയാണെങ്കിൽ ഞാൻ എല്ലാം നൽകി അതിനാൽ ഞാൻ ഒരു ശാഖയും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നോഡ് 1 ൽ r ആണ് ഞാൻ കാണിച്ച രീതിയിൽ r KCL പ്രയോഗിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ ഇപ്പോൾ എഴുതുന്നു അതിനാൽ 8 v1 0 ന് v1 v2 എന്നാൽ v1 ബൈ 20 റഫറൻസ് നോഡ് പക്ഷേ r മനസിലാക്കാൻ ഞാൻ v1 0 റഫറൻസ് നോഡും v1 v3 ഉം 12 2 ന് എഴുതുമ്പോഴെല്ലാം അതിനാൽ ലളിതമാക്കുകയാണെങ്കിൽ അത് 31 v1 15 v2 10 v3 2 40 അതുപോലെ തന്നെ നോഡ് 2 ൽ ഞാൻ പറഞ്ഞതും ലളിതമാക്കുന്നതും പോലെ ലഭിക്കും 3 v1 13 v2 6 v3 0 ഇത് ഇക്വഷൻ 2 അതുപോലെ നോഡ് 3 ൽ ഞാൻ പറഞ്ഞു ഇത് r സ്വന്തമായി ചെയ്യൂ കാരണം ഇത് ഉദാഹരണം 11 ആണ് അതിനാൽ പലതരം ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു അതിനാൽ 5 v1 15 v2 26 v3 120 ആയിരിക്കും ഞാൻ പറഞ്ഞ രീതി ലളിതമാക്കാൻ ഇത് ഇക്വഷൻ 3 ആണ് v1 v2 v3 ന് ഒന്ന് 2 3 എന്നിവ പരിഹരിച്ചാൽ v2 0 ലഭിക്കും ഇതിനർത്ഥം ഈ സർക്യൂട്ട് സന്തുലിതമാണ് ഉടൻ തന്നെ വോൾട്ടേജിന് ആ v2 0 ലഭിക്കുന്നു ഇതിനർത്ഥം നോഡ് അനാലിസിസ് ഉപയോഗിച്ച് v2 നിർണ്ണയിക്കുക എന്ന് പറയപ്പെടുന്ന പ്രശ്നത്തിൽ ഈ സർക്യൂട്ടുകൾ സന്തുലിതമാണ് v2 നായി പരിഹരിക്കുക അതിനാൽ v2 എന്നത് 0 സാധ്യതകൾക്ക് തുല്യമാണ് അതായത് നോഡൽ സർക്യൂട്ട് സന്തുലിതമാണ്